എല്ലാവർക്കും നമസ്കാരം അതിനാൽ ഞങ്ങൾ HRSG അല്ലെങ്കിൽ ഹീറ്റ് റിക്കവറി സ്റ്റീം ജനറേറ്റർ ചർച്ച ചെയ്യുകയായിരുന്നു ഞാൻ പറഞ്ഞതുപോലെ ഹീറ്റ് റിക്കവറി സ്റ്റീം ജനറേറ്റർ നീരാവി മർദ്ദത്തെ ആശ്രയിച്ച് ഹീറ്റ് റിക്കവറി സ്റ്റീം ജനറേറ്ററിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടാകാം ഒറ്റ മർദ്ദം ഇരട്ട മർദ്ദം ട്രിപ്പിൾ മർദ്ദംsingle pressure double pressure triple pressure എന്നിങ്ങനെ ഇതിനെ തരം തിരിക്കാം വ്യക്തമായും ഒരു എച്ച്ആർഎസ്ജിയിലെ ഏറ്റവും ലളിതമായ ക്രമീകരണമാണ് സിംഗിൾ പ്രഷർ അല്ലെങ്കിൽ ഇത് എച്ച്ആർഎസ്ജിയുടെ ഏറ്റവും ലളിതമായ രൂപകൽപ്പനയാണ് ലേഔട്ട് എന്താണെന്ന് അറിയാൻ ഒരൊറ്റ പ്രഷർ എച്ച്ആർഎസ്ജിയുടെ വിവരണത്തോടെ ഞങ്ങൾ ആരംഭിക്കും അതിനാൽ ഇത് സ്കീമാറ്റിക് ആയി ഒരൊറ്റ മർദ്ദം HRSG കാണിക്കുന്നു ഇവിടെയുള്ള ക്രമീകരണം തിരശ്ചീനമാണ് ഇത് വളരെ സാധാരണമാണ് ഉയർന്ന താപനിലയുള്ള വാതകമായ ഗ്യാസ് ടർബൈനിൽ നിന്നുള്ള പുറന്തള്ളൽ അത് എച്ച്ആർഎസ്ജിയിലേക്ക് വരുന്നു താപ വിനിമയം കാരണം ഇത് കടന്നുപോകുമ്പോൾ വാതകത്തിന്റെ താപനില കുറയുന്നു ആത്യന്തികമായി വേണ്ടത്ര ഊർജ്ജം വേർതിരിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് ആവശ്യമായ ചൂട് ഞങ്ങൾ കവർ ചെയ്യുന്നു തുടർന്ന് അത് സ്റ്റാക്കിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ചിമ്മിനി അതിനാൽ ഞങ്ങൾ സൃഷ്ടിക്കുന്നു അതായത് ഈ താപ ഊർജ്ജത്തിന്റെ സഹായത്തോടെ ഞങ്ങൾ ഒരു സ്റ്റീം പവർ പ്ലാന്റിനെ പിന്തുണയ്ക്കുന്നു നീരാവി ഉത്പാദനത്തിൽ ഒരു പവർ പ്ലാന്റിന് 3 ഭാഗങ്ങൾ ഉണ്ടാകാം ഇത് Ts ഡയഗ്രം സ്റ്റീം പവർ പ്ലാന്റാണെന്നും ഇത് 2 ഫേസ് ഡോം ആണെന്നും ഓർക്കുക ഫീഡ് പമ്പിൽ നിന്ന് ആവി വരുന്നത് ഇവിടെയാണ് അതിനാൽ ഇത് വരെയുള്ള ഒരു പ്രക്രിയ പിന്തുടരുന്നു തുടർന്ന് അത് ടർബൈനിലേക്ക് പോകുന്നു അതിനാൽ ഈ സമയത്ത് ഫീഡ് പമ്പിൽ നിന്ന് പുറത്തുകടക്കുക ഈ സമയത്ത് സ്റ്റീം ടർബൈനിലേക്കുള്ള പ്രവേശനം അതിനാൽ മുഴുവൻ പ്രക്രിയയും ചൂട് കൂട്ടിച്ചേർക്കലാണ് എന്നാൽ ഈ ചൂട് കൂട്ടിച്ചേർക്കൽ പ്രക്രിയയ്ക്ക് 3 ഭാഗങ്ങളുണ്ട് ആദ്യ ഭാഗം ദ്രാവക ജലത്തിന്റെ താപനില വർദ്ധിപ്പിക്കുന്നു അതിനാൽ ഇത് യഥാർത്ഥത്തിൽ ഇക്കണോമൈസർഎന്നറിയപ്പെടുന്ന ബോയിലറിന്റെ ഒരു ഭാഗത്താണ് നടക്കുന്നത് തുടർന്ന് ബാഷ്പീകരണം സംഭവിക്കുന്നു അതിനാൽ തീർച്ചയായും ബോയിലറിന്റെ പ്രധാന ഭാഗം അതിനുശേഷം നമുക്ക് പൂരിത നീരാവി ലഭിച്ചുകഴിഞ്ഞാൽ അത് സൂപ്പർഹീറ്ററിലേക്ക് പോകുന്നു അവിടെ താപനില കൂടുതൽ വർദ്ധിക്കുന്നു അതിനാൽ ഗ്യാസ് താപനില എങ്ങനെ കുറയുന്നുവെന്ന് ഞാൻ നേരത്തെ കാണിച്ചതും ഇവിടെ നിങ്ങൾക്ക് കാണാം അതിനാൽ ഉയർന്ന വാതക താപനില സൂപ്പർഹീറ്ററിനെ നേരിടണം അത് അൽപ്പം തണുപ്പായിരിക്കുമ്പോൾ അതിനാൽ അത് ബാഷ്പീകരണത്തിന് താപം നൽകണം തുടർന്ന് അത് വളരെ തണുപ്പുള്ളപ്പോൾ സാമ്പത്തിക വിദഗ്ധന് താപ ഊർജ്ജം നൽകണം അതാണ് നമുക്ക് ലഭിക്കുന്നത് അതിനാൽ ഇത് നിങ്ങളുടെ സൂപ്പർഹീറ്ററാണെന്ന് ഞങ്ങൾ കാണുകയാണെങ്കിൽ അത് ഇവിടെ ഉയർന്ന താപനിലയുള്ള വാതകത്തെ അഭിമുഖീകരിക്കുന്നു തുടർന്ന് ഒരു ബാഷ്പീകരണവും ഒരു സ്റ്റീം ഡ്രമ്മും ഉണ്ട് അടിസ്ഥാനപരമായി സ്റ്റീം ഡ്രമ്മിൽ നിന്ന് ഒരു സ്റ്റീം ഡ്രം വരുന്നു പിന്നെ തീർച്ചയായും ബാഷ്പീകരണത്തിനായി ഒരു സർക്യൂട്ട് ഉണ്ടാകും അതിനാൽ അതായത് പൂരിത അവസ്ഥയിൽ എത്തുമ്പോൾ ഏറ്റവും കുറഞ്ഞ താപനിലയിലുള്ള കണ്ടൻസേറ്റ് ഹീറ്റ് റിക്കവറി സ്റ്റീം ജനറേറ്ററിന്റെ ഏറ്റവും അറ്റത്ത് ആയിരിക്കണം കാരണം ഇവിടെ എക്സ്ഹോസ്റ്റ് വാതകം ഏറ്റവും കുറഞ്ഞ താപനിലയിലാണ് അതിനാൽ നീരാവി വശത്ത് നിന്ന് കണ്ടൻസേറ്റ് ഫീഡ് പമ്പിൽ നിന്ന് ഇക്കണോമൈസറിലൂടെ കടന്നുപോകുന്നത് കണ്ടാൽ ബാഷ്പീകരണത്തിനായി ഒരു സ്റ്റീം ഡ്രം ഉണ്ട് ഒരു സർക്കുലേഷൻ ഉണ്ട് സ്വാഭാവിക രക്തചംക്രമണം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു പക്ഷേ ഒരു പമ്പ് ഉണ്ടാകാം അതിനു ശേഷം ആവി ഡ്രമ്മിൽ നിന്ന് പൂരിത നീരാവി പുറത്തുവരുന്നു അത് സൂപ്പർഹീറ്ററിൽ അമിതമായി ചൂടാക്കി പുറത്തേക്ക് പോകുന്നു അതിനാൽ ഇത് നിങ്ങളുടെ ഒറ്റ പ്രഷർ HRSG ആണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കണക്ക് വളരെ സാധാരണമാണ് അതിനാൽ ഞങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചാൽ ഒരു തിരശ്ചീന HRSG ക്ക് ഒരുതരം മോഡുലാർ ഡിസൈൻ ഉണ്ടാകും അതിനാൽ ഇവിടെ ഗ്യാസ് ടർബൈൻ എക്സിറ്റിൽ നിന്നുള്ള ചൂടുള്ള വാതകം വരും അതിനാൽ അടിസ്ഥാനപരമായി നമുക്ക് എച്ച്ആർഎസ്ജിയെ ഒരു നാളമായി കണക്കാക്കാം ഇതൊരു നാളമാണ് തീർച്ചയായും നാളം സ്ഥിരമായ ക്രോസ് സെക്ഷനല്ല ആ നാളത്തിൽ ധാരാളം ചൂട് എക്സ്ചേഞ്ചറുകൾ ഉണ്ട് അതിനാൽ കുഴൽ വാതകത്തിലൂടെ ഒഴുകുന്നു ചൂടുള്ള വാതകം ഒഴുകുന്നു വ്യത്യസ്ത തരം താപ വിനിമയ പ്രതലങ്ങൾ നേരിടുന്നതിനാൽ അതിന്റെ താപനില കുറയുന്നു അതിനാൽ ആദ്യത്തേത് നമ്മുടെ മുമ്പത്തെ ഡയഗ്രാമുമായി സഹകരിക്കാൻ കഴിയുന്ന സൂപ്പർഹീറ്റാണ് അതിനാൽ ഇത് സൂപ്പർഹീറ്റഡ് വിഭാഗമാണ് അപ്പോൾ നമുക്ക് ബാഷ്പീകരിക്കപ്പെട്ട ഭാഗം ലഭിച്ചു മുകളിലെ ബാഷ്പീകരണ വിഭാഗത്തിൽ ഒരു ബോയിലർ ഡ്രം ഉണ്ടാകും അതിനാൽ ഇതാണ് ബോയിലർ ഡ്രം ഇവയാണ് നിരവധി ട്യൂബുകൾ പിൻവശവും ട്യൂബുകളുണ്ട് അതിനാൽ ഇവ അടിസ്ഥാനപരമായി റീസറുകളാണ് ധാരാളം റീസറുകൾ ഉണ്ടാകും അതിലൂടെ നീരാവി ജല മിശ്രിതം ഈ ഡ്രമ്മിലേക്ക് വരുകയും വേർപെടുത്തുകയും ചെയ്യും പിന്നെ താഴെയുമുണ്ട് അതിനാൽ ഇവ ഡൌൺകോമറുകളാണ് ഡൌൺകോമറുകൾ വലിയ ക്രോസ് സെക്ഷന്റെ ട്യൂബുകളായിരിക്കും എന്നാൽ പിന്നീട് അവയുടെ എണ്ണം കുറവായിരിക്കും സാധാരണയായി ഡൌൺകമറിലൂടെ ദ്രാവകം നീരാവി ഡ്രമ്മിൽ നിന്ന് പുറത്തുവരുന്നു അതിനാൽ ഇവരാണ് അധഃപതിച്ചവർ സ്റ്റീം ഡ്രമ്മിൽ നിന്ന് നീരാവി പുറത്തെടുക്കുന്ന ഒരു പൈപ്പ് ലൈൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് മുകളിൽ കാണാം അത് ഈ വശത്തുള്ള സൂപ്പർഹീറ്റിലേക്ക് പോകുകയും എവിടെ നിന്ന് ആവി ഡ്രമ്മിലേക്ക് വെള്ളം വരുന്നു ഇതാണ് ഇക്കണോമൈസറിൽ നിന്ന് വരുന്നു അതിനാൽ ഇതാണ് സാമ്പത്തിക വിദഗ്ധൻ അതിനാൽ നീരാവി പ്രവാഹത്തിന്റെ ദിശ ഈ ദിശയിലും ചൂടുള്ള വാതക പ്രവാഹത്തിന്റെ ദിശ വിപരീത ദിശയിലുമാണ് ഈ കാര്യങ്ങൾക്ക് ശേഷം ഈ ചൂടുള്ള വാതക താപനില ഇപ്പോൾ വളരെ കുറവാണ് അത് ചിമ്മിനിയിലേക്കോ സ്റ്റാക്കിലേക്കോ ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള കണക്ഷനിലൂടെ കടന്നുപോകും അതിനാൽ എന്താണ് HRSG എന്നതിന്റെ യഥാർത്ഥ അവസ്ഥയിൽ നമുക്ക് ലഭിക്കുന്നത് ഇതാണ് ഇപ്പോൾ താപനില എങ്ങനെ മാറുന്നുവെന്ന് നമ്മൾ കണ്ടാൽ ഇത്തരത്തിലുള്ള ഒരു കണക്ക് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു അതിനാൽ ഒരു മർദ്ദത്തിന് തയ്യാറായ ഗ്യാസ് സ്ട്രീമിന്റെ താപനില കുറയുന്നത് ഇങ്ങനെയാണ് നീരാവി ചക്രത്തിന്റെ പ്രവർത്തന ദ്രാവകത്തിന്റെ താപനില വർദ്ധിക്കുന്നത് ഇങ്ങനെയാണ് അതിനാൽ ഈ ഭാഗം എക്കണോമൈസർ ആണ് തുടർന്ന് ബാഷ്പീകരണം ആരംഭിക്കുന്നു ഇവിടെ നിന്ന് ഇങ്ങോട്ട് അത് ബാഷ്പീകരണമാണ് തുടർന്ന് സൂപ്പർഹീറ്റർ ഉണ്ട് അതിനാൽ വളരെ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കേണ്ട 2 പോയിന്റുകൾ ഉണ്ട് അവിടെ ഒരു പിഞ്ച് ഇവിടെയുണ്ട് ഇത് ബാഷ്പീകരണത്തിലേക്ക് പ്രവേശിക്കുന്ന പോയിന്റാണിത് തുടർന്ന് ഈ ചുവന്ന വരയാണ് വിവിധ വാതക പ്രവാഹങ്ങളുടെ താപനില അതിനാൽ ഈ പോയിന്റിലെ താപനിലയിലെ വ്യത്യാസത്തെ പിഞ്ച് പോയിന്റ് എന്നും നമുക്ക് ലഭിക്കുന്ന ഈ താപനില വ്യത്യാസത്തെ പിഞ്ച് താപനില എന്നും വിളിക്കുന്നു അതിനാൽ ഇത് അടിസ്ഥാനപരമായി ഒരു താപനിലയല്ല മറിച്ച് ഒരു താപനില വ്യത്യാസമാണ് അതിനോടൊപ്പം സമീപനം എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു ലംബ വരയുണ്ട് അതിനാൽ ഇക്കണോമൈസർ സാച്ചുറേഷൻ താപനില കൈവരിക്കുന്നില്ലെന്ന് ഞങ്ങൾ കണ്ടെത്തി അതിനാൽ ഒരു ചെറിയ അളവിലുള്ള സബ്കൂളിങ് ഉണ്ടാകും ചെറിയ അളവിലുള്ള സബ്കൂളിംഗ് ഉപയോഗിച്ച് അത് ബാഷ്പീകരണത്തിലേക്ക് പോകും ഈ വ്യത്യാസം അർത്ഥമാക്കുന്നത് ചെറിയ അളവിലുള്ള സബ്കൂളിംഗിനെ സമീപനം എന്ന് വിളിക്കുന്നു അതിനാൽ ഒരു എച്ച്ആർഎസ്ജിയുടെ പ്രായോഗിക രൂപകൽപ്പനയ്ക്ക് ഈ സമീപനവും പിഞ്ചും വളരെ പ്രധാനമാണ് ഞങ്ങൾ അവ പിന്നീട് ചില സ്ലൈഡുകളിൽ വിശദീകരിക്കാൻ പോകുന്നു അതിനാൽ HRSG അടിസ്ഥാനപരമായി താപ ഊർജ്ജം വീണ്ടെടുക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ് അത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ നല്ല ജോലി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അതിനാൽ അടിസ്ഥാനപരമായി എച്ച്ആർഎസ്ജിക്ക് ഒരു കൌണ്ടർ കറന്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന നിലയിൽ മൊത്തത്തിലുള്ള അർത്ഥത്തിൽ അത് പരിശോധിക്കാൻ കഴിയും ഏത് ഹീറ്റ് എക്സ്ചേഞ്ചറിലും ഒരു കൌണ്ടർ കറന്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ ഹീറ്റ് എക്സ്ചേഞ്ച് പ്രക്രിയയിൽ 2 ദ്രാവകങ്ങൾ ഉൾപ്പെടും ഒരു കൌണ്ടർ കറന്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ ഈ 2 ദ്രാവകങ്ങൾ എതിർദിശകളിലേക്ക് ഒഴുകുന്നു അതിനാൽ എച്ച്ആർഎസ്ജിക്കുള്ളിലെ വ്യക്തിഗത ഹീറ്റ് എക്സ്ചേഞ്ചറുകളെ കുറിച്ച് എച്ച്ആർഎസ്ജി മറക്കുന്നു മൊത്തത്തിൽ നമുക്ക് അതിനെ ഒരു കൌണ്ടർ കറന്റ് ഹീറ്റ് എക്സ്ചേഞ്ചറായി എടുക്കാം അതിനാൽ ഗ്യാസ് സ്ട്രീമിന്റെ താപനില ഇതുപോലെ കുറയും താപനില ദ്രാവകമായ ദ്രാവക സ്ട്രീം ഒരു കൌണ്ടർ കറന്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിന് വേണ്ടി താപനില ഇതുപോലെ വർദ്ധിക്കും ഈ 2 സ്ട്രീമുകൾക്കിടയിലുള്ള ∆T പ്രായോഗികമായി 0 മതിയാകത്തക്ക രീതിയിൽ അവയെ ഒഴുകാൻ നമുക്ക് കഴിയുമെങ്കിൽ ഈ 2 സ്ട്രീമുകൾക്കിടയിലുള്ള ഊർജ്ജ കൈമാറ്റത്തിന്റെ വളരെ ഉയർന്ന ദക്ഷത നമുക്ക് ലഭിക്കും ശരിയായ അർത്ഥത്തിൽ സാധ്യമായ പരമാവധി അളവിൽ നമുക്ക് മാലിന്യ താപം വേർതിരിച്ചെടുക്കാൻ കഴിയും എന്നാൽ നിർഭാഗ്യവശാൽ ഒരു HRSG യിൽ താപനില പ്രൊഫൈലുകൾ ഇതുപോലെയല്ല വാതക സ്ട്രീം തണുപ്പിക്കുന്നു അതിനാൽ ഇതിന് ഇതുപോലെ കൂടുതലോ കുറവോ താപനില പ്രൊഫൈൽ ലഭിച്ചു പക്ഷേ ദ്രാവകവും നീരാവി പ്രവാഹവും അത് സിംഗിൾ ഫേസ് ഹീറ്റ് ട്രാൻസ്ഫർ തുടർന്ന് ബാഷ്പീകരണം തുടർന്ന് വീണ്ടും നീരാവി സ്ട്രീമിന്റെ സിംഗിൾ ഫേസ് ചൂടാക്കൽ എന്നിവയിലൂടെ കടന്നുപോകുന്നു അതിനാൽ താപനില പ്രൊഫൈൽ ഇതുപോലെയായിരിക്കും അതിനാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് അവയെ വളരെ അടുത്ത് കൊണ്ടുവരാൻ കഴിയും എന്നാൽ ഞങ്ങൾ അവയെ വളരെ അടുത്ത് കൊണ്ടുവന്നാൽ 1 പോയിന്റ് ഉണ്ട് മാലിന്യ ചൂട് വീണ്ടെടുക്കൽ വളരെ കാര്യക്ഷമമാണ് എന്നാൽ ഉപകരണങ്ങളുടെ പ്രാരംഭ വിലയും വലുപ്പവും വർദ്ധിക്കുന്നു താപനിലയിൽ മാറ്റമൊന്നുമില്ലാത്ത എന്നാൽ താപ കൈമാറ്റം നടക്കുന്ന ഇത്തരം ഒരു സാഹചര്യം കാരണം വീണ്ടും സംഭവിക്കുന്നത് ഈ 2 സ്ട്രീമുകൾക്കിടയിൽ ഒരു നിശ്ചിത അളവിലുള്ള താപനില വ്യത്യാസം ഉണ്ടായിരിക്കും ഈ താപനില വ്യത്യാസം ∆T എന്നത് മാറ്റാനാവാത്തതാണ് അതിനാൽ പ്രക്രിയയിൽ അന്തർലീനമായ ഒരു നിശ്ചിത അളവിലുള്ള അപ്രസക്തത ഉണ്ടാകും അതിനാൽ നാം അത് മനസ്സിൽ സൂക്ഷിക്കണം അതിനാൽ നീരാവി ജലത്തിന്റെ തപീകരണ വക്രതയുടെ ആകൃതി കാരണം ∆T കുറഞ്ഞ മൂല്യത്തിലേക്ക് കുറയ്ക്കാൻ കഴിയില്ല അതിനാൽ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു പോയിന്റാണിത് ബാഷ്പീകരണ വിഭാഗത്തിൽ ∆T പരമാവധി ആണ് പിഞ്ചിന്റെ പരിമിതമായ മൂല്യത്തിൽ തിരഞ്ഞെടുത്ത പിഞ്ച് താപനിലയുടെ മൂല്യത്തെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ താപനില ക്രോസ്ഓവർ ഒഴിവാക്കാൻ പിഞ്ചിന്റെ പരിമിതമായ മൂല്യം എടുക്കേണ്ടതുണ്ട് ഇത് ഏറ്റവും ചെറിയ താപനിലയാണെന്ന് കരുതുക അതിനാൽ ഞങ്ങൾ അവരെ അടുത്തും അടുപ്പിച്ചും കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അതിനാൽ മാലിന്യ താപ വീണ്ടെടുക്കലിന്റെ പരമാവധി തുക ഞങ്ങൾക്ക് ലഭിച്ചു അപ്പോൾ ഒരു ഓപ്പറേഷൻ സമയത്ത് സംഭവിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കാം വാതക പ്രവാഹത്തിന്റെ താപനില ഇങ്ങനെ കുറയുകയും നീരാവി പ്രവാഹത്തിന്റെ താപനില ഇങ്ങനെ വർദ്ധിക്കുകയും ചെയ്യുന്നു താപനില ക്രോസ് ഓവർ എന്നറിയപ്പെടുന്ന ഈ 2 താപനില വളവുകളുടെ ഈ ക്രോസിംഗ് സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിനാൽ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിൽ ഇത് അനുവദനീയമല്ല ഇത് തെർമോഡൈനാമിക്സിന്റെ രണ്ടാമത്തെ നിയമം ലംഘിക്കുന്നു തുടർന്ന് സിസ്റ്റം പ്രവർത്തിക്കില്ല അതിനാൽ ഇത് ഒഴിവാക്കാൻ ഞങ്ങൾ മനഃപൂർവ്വം ഗ്യാസ് സ്ട്രീമിനും നീരാവി പ്രവാഹത്തിനും ഇടയിൽ ഒരുതരം പരിമിതമായ പിഞ്ച് സൂക്ഷിക്കുന്നു അതുകൊണ്ടാണ് മാറ്റാനാകാത്തത് കുറച്ച് നല്ല അളവിലുള്ള തിരിച്ചെടുക്കാനാകാത്തതും ഒരു നിശ്ചിത അളവിൽ മാലിന്യ ചൂട് വീണ്ടെടുക്കൽ സാധ്യമല്ലാത്തതും അപ്പോൾ നമ്മൾ ചില പരിമിതമായ സമീപനങ്ങളും പാലിക്കേണ്ടതുണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ എന്താണ് സമീപനം എക്കണോമൈസറിൽ നിന്ന് ദ്രാവകം പൂരിത അവസ്ഥയിൽ വരില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഒരു നിശ്ചിത താപനില വ്യത്യാസം ഉണ്ടാകും അതിനാൽ ഇതിനെ സമീപനം എന്ന് വിളിക്കുന്നു സാമ്പത്തിക വിദഗ്ധർ നീരാവി കൈകാര്യം ചെയ്യാൻ രൂപകൽപ്പന ചെയ്തിട്ടില്ലാത്തതിനാൽ ഇത് അത്യന്താപേക്ഷിതമാണ് അതിനാൽ ഓപ്പറേറ്റിംഗ് സാഹചര്യങ്ങളിൽ ഓപ്പറേറ്റിംഗ് പാരാമീറ്ററുകളിൽ ചെറിയ മാറ്റമുണ്ടെങ്കിൽ എക്കണോമൈസറിനുള്ളിൽ നീരാവി ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഉപകരണത്തിന് ഹാനികരവും അനുവദനീയമല്ലാത്തതുമാണ് അതിനാൽ മനഃപൂർവ്വം ഞങ്ങൾ ഒരു സമീപനം പാലിക്കേണ്ടതുണ്ട് സാധാരണയായി സമീപനം 8 ഡിഗ്രി 10 ഡിഗ്രി പിഞ്ച് 10 ഡിഗ്രിയിൽ നിന്ന് ആരംഭിക്കുന്ന ക്രമം അത് 15 20oC എന്നിങ്ങനെയാകാം അതിനാൽ അത് സമീപനത്തിന്റെ മൂല്യമാണ് പിഞ്ച് ചില വ്യതിയാനങ്ങളായിരിക്കാം പക്ഷേ ഞാൻ ഒരുതരം വൈകാരിക മൂല്യങ്ങൾ നൽകിയിട്ടുണ്ട് അതിനാൽ ഇവയാണ് ഞാൻ നൽകിയ നാമമാത്രമായ മൂല്യങ്ങൾ അതിനാൽ ഇവയാണ് ഞങ്ങൾ പിന്തുടരുന്ന അല്ലെങ്കിൽ HRSG രൂപകൽപ്പനയുടെ കാര്യത്തിൽ പിഞ്ച് ചെയ്യുന്നതിനും സമീപിക്കുന്നതിനും പിന്തുടരുന്ന മൂല്യങ്ങൾ എന്നാൽ ഉപകരണങ്ങളുടെ പ്രവർത്തനം മനസ്സിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇത് ചെയ്യുമ്പോൾ വ്യക്തമായും മാലിന്യ താപത്തിന്റെ മൊത്തം അളവ് അതിന്റെ പൂർണ്ണ ശേഷിയിലേക്ക് വീണ്ടെടുക്കാത്ത ചിലത് നമുക്ക് നഷ്ടപ്പെടുകയാണ് അതിനാൽ നമുക്ക് തിരികെ പോകാം അതിനാൽ ഉപകരണങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇക്കണോമൈസറിൽ തിളച്ചുമറിയുന്നത് ഒഴിവാക്കാൻ പരിമിതമായ സമീപനം സ്വീകരിക്കണമെന്ന് ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട് തുടർന്ന് ഇവയെല്ലാം അറിയുമ്പോൾ എച്ച്ആർഎസ്ജിയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുള്ള രീതികൾ എന്തൊക്കെയാണ് ഏറ്റവും സാധാരണവും ലളിതവുമായ ഒരൊറ്റ മർദ്ദം HRSG ഞങ്ങൾ വിവരിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ പാഴ് താപത്തിന്റെ മികച്ച ഉപയോഗം നൽകുന്നില്ല പ്രത്യേകിച്ച് സിസ്റ്റം വലുതായിരിക്കുമ്പോൾ ഉയർന്ന താപനിലയുടെ ഒരു നല്ല അളവ് അപ്പോൾ ഈ ഒറ്റ മർദ്ദം ക്രമീകരണം മതിയായതല്ല അതിനാൽ തലമുറയിൽ ഞങ്ങൾ പല സമ്മർദ്ദങ്ങളിലേക്കും പോകുന്നു മൾട്ടി പ്രഷർ സ്റ്റീം ജനറേഷനിൽ ഇരട്ട മർദ്ദം ഉണ്ടാകാം അത് വീണ്ടും വളരെ സാധാരണമാണ് കൂടാതെ 3 വ്യത്യസ്ത മർദ്ദ നിലകളിൽ കൂടുതൽ ട്രിപ്പിൾ മർദ്ദം ഉണ്ടാകാം ആളുകൾ എച്ച്ആർഎസ്ജിയുടെ രൂപകൽപ്പന പരീക്ഷിച്ചിട്ടില്ല കൂടാതെ ചൂടാക്കൽ പ്രതലങ്ങളുടെ ക്രമീകരണം ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഇരട്ട മർദ്ദം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണാൻ പോകുന്നു നമ്മൾ ഒരു വലിയ സംവിധാനത്തിനായി പോകുമ്പോൾ ഉദാഹരണത്തിന് ഡ്യുവൽ പ്രഷർ സിസ്റ്റം ഉണ്ട് അതിനാൽ ഓരോ മർദ്ദത്തിനും ഇക്കണോമൈസർ ഉണ്ടാകും ബാഷ്പീകരിക്കപ്പെടുന്ന വിഭാഗം ഉണ്ടാകും സൂപ്പർ ഹീറ്റർ ഉണ്ടാകും വീണ്ടും നമുക്ക് ഈ നീരാവി വീണ്ടും ചൂടാക്കാൻ പോകാം അതിനാൽ ഈ നിരവധി ഹീറ്റ് എക്സ്ചേഞ്ചർ പ്രതലങ്ങളുണ്ട് ഫ്ലൂ ഗ്യാസ് പാതയുമായി ബന്ധപ്പെട്ട് ഈ ഉപരിതലങ്ങൾ എങ്ങനെ ക്രമീകരിക്കാമെന്ന് ഒരാൾക്ക് ചിന്തിക്കാം അതിനാൽ താപ ഊർജ്ജത്തിന്റെ പരമാവധി കൈമാറ്റം സാധ്യമാണ് നോക്കൂ ചൂടുള്ള വാതകത്തിന് താപനില നഷ്ടപ്പെടുന്നത് ഇങ്ങനെയാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ മാതൃകാപരമായ ഡയഗ്രം കാണിച്ചു അതിനാൽ ഈ വശം നിങ്ങളുടെ താപനിലയാണ് ഈ വശം നിങ്ങളുടെ എച്ച്ആർഎസ്ജിയുടെ നീളമാണെന്നും ഇത് ഒരു കൌണ്ടർ കറന്റ് തരം ഹീറ്റ് എക്സ്ചേഞ്ചറാണെങ്കിൽ എച്ച്ആർഎസ്ജി കൌണ്ടർ കറന്റ് തരം ഹീറ്റ് എക്സ്ചേഞ്ചറാണെന്നും പറയാം അതിനാൽ തണുത്ത ദ്രാവക ആവിക്ക് ഇതുപോലെ താപനില നേടാമായിരുന്നു അനുയോജ്യവും നല്ല താപ വിനിമയത്തിനും ഒരാൾക്ക് ഈ ∆T യൂണിഫോം നീളത്തിൽ പരമാവധി നീളത്തിൽ സൂക്ഷിക്കാമായിരുന്നു ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നീരാവി ഉൽപാദന പ്രക്രിയ സാധ്യമല്ല പക്ഷേ നമുക്ക് ഹീറ്റ് എക്സ്ചേഞ്ചറുകൾ ഉള്ളപ്പോൾ അവയിൽ ചിലത് സൂപ്പർ ഹീറ്റിംഗിനുള്ളതാണ് അവയിൽ ചിലത് നിശ്ചിത സാച്ചുറേഷൻ അല്ലെങ്കിൽ താപനില കൈവരിക്കുന്നതിന് ദ്രാവകത്തെ ചൂടാക്കാനുള്ളതാണ് അവയിൽ ചിലത് നീരാവി ഉൽപാദനത്തിനുള്ളതാണ് അത്തരം ചൂട് എക്സ്ചേഞ്ചറുകൾ ക്രമീകരിക്കാൻ ശ്രമിക്കുക അതിനാൽ ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു രൂപത്തിലേക്ക് അടുക്കുന്നു അതിനാൽ ചൂടാക്കൽ പ്രതലങ്ങളുടെ പിപിടി ഒപ്റ്റിമൈസിംഗ് ക്രമീകരണത്തിൽ പറഞ്ഞിരിക്കുന്നത് അതാണ് അപ്പോൾ നമുക്ക് ഓക്സിലറി ഫയറിംഗ് നടത്താം ഓക്സിലറി ഫയറിംഗ് വഴി നമുക്ക് വാതകത്തിന്റെ താപനില വർദ്ധിപ്പിക്കാനും അതിന്റെ അളവ് വർദ്ധിപ്പിക്കാനും കഴിയുമെന്ന് ഞാൻ ഇതിനകം പറഞ്ഞിട്ടുണ്ട് അതിനാൽ സ്റ്റീം സൈറ്റിൽ കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയും തുടർന്ന് കണ്ടൻസേറ്റ് ഹീറ്റർ ഡി എയറേറ്റർ അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ചർ പോലുള്ള ദ്വിതീയ പ്രതലങ്ങളുടെ നിരോധന വ്യവസ്ഥ അതിനാൽ ഇതുവഴി സൈക്കിൾ ലേഔട്ടിൽ ഒരുതരം മാറ്റം സംഭവിക്കുന്നു അതിനാൽ അനുയോജ്യമായ ഡിസൈനുകളുടെ ചിറകുകൾ നൽകിക്കൊണ്ട് നമുക്ക് കുറച്ച് അധിക താപ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനാകും അതിനാൽ ലിക്വിഡ് സൈഡ് ഹീറ്റ് ട്രാൻസ്ഫർ കോഫിഫിഷ്യന്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗ്യാസ് സൈഡ് ഹീറ്റ് ട്രാൻസ്ഫർ കോഫിഫിഷ്യന്റ് ചെറുതായിരിക്കും അതിനാൽ കുറഞ്ഞ പിഞ്ചും അപ്രോച്ച് പോയിന്റുകളും ഉപയോഗിക്കുന്നത് പോലെ ചിലതരം ചിറകുകൾ നൽകിക്കൊണ്ട് അത് മെച്ചപ്പെടുത്താം അതിനാൽ ആ പിഞ്ചും സമീപന പോയിന്റും ഞാൻ പറഞ്ഞതുപോലെ ഉപകരണത്തിന്റെ ഉപകരണ പ്രവർത്തനത്തിന് ഞങ്ങൾ നൽകണം അതിനാൽ ഒരു നല്ല രൂപകൽപനയിലൂടെ നമുക്ക് അവ കുറയ്ക്കാൻ കഴിയും ഒരു നല്ല എസ്റ്റിമേറ്റ് ഉപയോഗിച്ച് നമുക്ക് അവ കുറയ്ക്കാം അതിനാൽ എച്ച്ആർഎസ്ജിയുടെ മികച്ച രൂപകൽപന ചെയ്യാൻ കഴിയുന്ന രീതികൾ ഇവയാണ് അതിനാൽ നമുക്ക് ഈ വ്യവസ്ഥയിലേക്ക് നോക്കാം അതിനാൽ ഇവിടെ ഞങ്ങൾ ഡ്യുവൽ പ്രഷർ ഓപ്പറേഷനോടുകൂടിയ ഒരു HRSG കാണിച്ചു അതിനാൽ ഇരട്ട മർദ്ദത്തിന് നമുക്ക് 2 സ്റ്റീം ഡ്രം ലഭിച്ചുവെന്ന് നോക്കാം ഈ സ്റ്റീം ഡ്രം ഓരോന്നും ഒരു പ്രത്യേക മർദ്ദമാണ് അതിനാൽ ഇത് ഡ്യുവൽ മർദ്ദമാകുമ്പോൾ ഞങ്ങൾ അതിനെ താഴ്ന്ന മർദ്ദം എന്നും ഉയർന്ന മർദ്ദം എന്നും വിളിക്കുന്നു ഗ്യാസ് ടർബൈൻ എക്സ്ഹോസ്റ്റ് പോകുമ്പോൾ താപനില കുറയുന്നു അതിനാൽ താഴ്ന്ന മർദ്ദമുള്ള വശം താഴ്ന്ന താപനിലയിലും ഉയർന്ന മർദ്ദം ഉയർന്ന താപനിലയിലും ആയിരിക്കും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സ്റ്റാക്കിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഏറ്റവും കുറഞ്ഞ താപനിലയാണിത് അതിനാൽ ഇവിടെ വെള്ളം താഴ്ന്ന മർദ്ദമുള്ള ഭാഗത്തേക്ക് പ്രവേശിക്കണം അതിനാൽ ലോ പ്രഷർ ഇക്കണോമൈസർ സ്റ്റീം ഡ്രമ്മിലേക്ക് പോകണം ഈ സ്റ്റീം ഡ്രമ്മിൽ ഒരുതരം രക്തചംക്രമണം ഉണ്ടാകും അതിനാൽ ഇത് പ്രതീകാത്മകമായി പമ്പ് കാണിക്കുന്നു അതിനാൽ ഇതൊരു ഫോഴ്സ് സർക്കുലേഷൻ സിസ്റ്റമാണ് ഈ സ്റ്റീം ഡ്രമ്മിൽ ഒരുതരം രക്തചംക്രമണം ഉണ്ടാകും അതിനാൽ സ്റ്റീം ഡ്രമ്മിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നീരാവി ഇത് സ്റ്റീം ഡ്രമ്മിൽ നിന്ന് പുറത്തുവരുന്ന നീരാവിയാണ് അതിനാൽ ഇവിടെ അത് സൂപ്പർ ഹീറ്ററിൽ സൂപ്പർഹീറ്റ് ചെയ്യും അതിനാൽ ഞങ്ങൾക്ക് ഇവിടെ എൽപി സൂപ്പർ ഹീറ്റർ ലഭിക്കുന്നു അതിനാൽ എൽപി ആവി പുറത്തുവരും വ്യക്തമായും ഈ എൽപി നീരാവി വികസിപ്പിക്കുന്നതിന് നമുക്ക് ഒരു ടർബൈൻ ഉണ്ടായിരിക്കാം അപ്പോൾ ഈ എൽപി സ്റ്റീം ഡ്രമ്മിന്റെ അടിയിൽ നിന്ന് നമുക്ക് നിശ്ചിത അളവിലുള്ള വെള്ളം ഉയർന്ന താപനിലയിലുള്ള ഒരു നിശ്ചിത അളവ് ദ്രാവകം വേർതിരിച്ചെടുക്കാൻ കഴിയും താപനില ഇനിയും ഉയർത്താൻ കഴിയും അതിനാൽ അത് ഇപ്പോൾ അനുയോജ്യമാണ് ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് ഞങ്ങൾ വെള്ളത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നു അതിനാൽ ഇപ്പോൾ താപനില ഇനിയും ഉയർത്താൻ കഴിയും അതിനാൽ ഇത് എച്ച്പി ഡ്രമ്മിന് അനുയോജ്യമാണ് അതിനാൽ ഇത് HP economiser ൽ പരിഗണിക്കാം അതിനാൽ എച്ച്പി ഡ്രമ്മിൽ ഇത് വീണ്ടും എച്ച്പി ഡ്രമ്മിൽ വരുന്നു ഒരു രക്തചംക്രമണം ഉണ്ട് ആവി ഉത്പാദിപ്പിക്കപ്പെടുന്നു അതിനാൽ ഇതിൽ നിന്ന് നീരാവി എടുക്കും ഒരു തരം HP സൂപ്പർ ഹീറ്റർ ഉണ്ടാകും അത് പുറത്തുപോകും എച്ച്ആർഎസ്ജിയിലെ 2 ദ്രാവക സ്ട്രീമിന്റെ താപനില പ്രൊഫൈൽ കാണുകയാണെങ്കിൽ ഗ്യാസ് സ്ട്രീം മാറുന്നത് നമുക്ക് കാണാൻ കഴിയും ഇതുപോലെയുള്ള താപനില അതേസമയം നീരാവി പ്രവാഹം അല്ലെങ്കിൽ ദ്രാവക സ്ട്രീം അതിന്റെ താപനില ഇതുപോലെ വർദ്ധിപ്പിക്കുന്നു അതിനാൽ കൂടുതലോ കുറവോ നിങ്ങൾ കാണുന്നത് ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സമാന്തര രേഖയാണ് പിന്തുടരുന്നത് നീരാവി ഉൽപാദനം ഉള്ളതിനാൽ ഇത്തരത്തിലുള്ള സ്വഭാവം ഒഴിവാക്കാനാവില്ല ഞാൻ ഇതിനകം വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ 2 സമ്മർദ്ദങ്ങൾ നൽകിക്കൊണ്ട് സിംഗിൾ പ്രഷർ ഓപ്പറേഷനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചില സമാന്തര വളവുകൾക്ക് സമീപം വരുന്ന 2 വളവുകൾ ഇവയാണ് അതിനാൽ ട്രിപ്പിൾ പ്രഷറിൽ പ്രവർത്തിക്കുമ്പോൾ 2 സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടമാണിത് ഗ്യാസ് സ്ട്രീം തണുപ്പിക്കുന്നതിനും നീരാവി സ്ട്രീം ചൂടാക്കുന്നതിനും നമുക്ക് ഗ്യാസ് സ്ട്രീമിന് വളരെ അടുത്ത വളവുകൾ ഉണ്ടാകും ഇപ്പോൾ HRSG യിൽ പലതും ഒരു സെലക്ടീവ് കാറ്റലറ്റിക് റിയാക്റ്റർ അല്ലെങ്കിൽ SCR ഉപയോഗിക്കും അതിനാൽ അത് പ്രത്യേകിച്ച് NOx ൽ പ്രവർത്തിക്കും ഇത് NO ൽ പ്രവർത്തിക്കും കൂടാതെ N2 ജലീയ അമോണിയ കുറയ്ക്കുന്ന ഏജന്റായി ഉപയോഗിക്കുന്നു അമോണിയ NO ഉം NO2 ഉം ഉപയോഗിച്ച് തിരഞ്ഞെടുത്ത് പ്രതിപ്രവർത്തിക്കുന്നു തുടർന്ന് ഇവയാണ് ഒന്ന് NO ഉം NO2 ഉം ഉള്ള 2 പ്രതിപ്രവർത്തനങ്ങൾ നൽകുന്നു ഒതുക്കമുള്ള ഏകതാനമായ തേൻകൂട്ടിന്റെ ഒരു കാറ്റലിസ്റ്റ് ബെഡ് ടൈറ്റാനിയം ഡയോക്സൈഡ് ടങ്സ്റ്റൺ ഓക്സൈഡിന്റെയും വനേഡിയം പെന്റോക്സൈഡിന്റെയും മിശ്രിതമാണ് ഏതെങ്കിലും തരത്തിലുള്ള താപനില ജാലകത്തിനുള്ളിൽ മികച്ച പ്രകടനത്തിനായി അമോണിയ ലായനി കുത്തിവയ്ക്കുന്നു സാധാരണയായി അത് ഉദ്വമനം കുറയ്ക്കുന്നതിന് അതിനുള്ളിൽ പ്രവർത്തിക്കുന്നു അതിനാൽ അതായത് HRSG യുടെ ഒരു ഭാഗം എന്താണ് അതിനാൽ ഇതോടെ എച്ച്ആർഎസ്ജിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ ചർച്ച അവസാനിക്കുന്നു